അതിനാൽ ക്ലോക്ക് രൂപകൽപ്പനയെക്കുറിച്ചുള്ള ഒരു ചർച്ച തുടരാം അതിനാൽ ഞങ്ങളുടെ അവസാന പ്രഭാഷണത്തിൽ ഓർമിച്ചാൽ സ്ക്യൂ ജിറ്റർ സജ്ജീകരണ സമയം ഹോൾഡ് ടൈം തുടങ്ങിയ ചില പാരാമീറ്ററുകളെക്കുറിച്ചും പരമാവധി ക്ലോക്ക് സൈക്കിൾ സമയംതീരുമാനിക്കുന്നതിൽ അവ എങ്ങനെ പങ്കു വഹിക്കുന്നുവെന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഇതിനിടയിൽ ചില ലോജിക് സർക്യൂട്ടുകളുള്ളസ്റ്റോറേജുകളുടെ ഘട്ടങ്ങളുള്ള ഒരു പൈപ്പ്ലൈൻ എക്സിക്യൂഷൻ അതിനാൽ ഈ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്നത് ക്ലോക്ക് സ്കീവിനെബാധിക്കുന്ന വിവിധ ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അതിനാൽ ഈ പോയിന്റുകൾ ഓരോന്നായി വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞാൻ കോൾ ലീഫ് നോഡ് എന്ന പദം ഉപയോഗിച്ചു അതുകൊണ്ട് ഒരിക്കൽക്കൂടി വിശദീകരിക്കാം അതിനാൽ എനിക്ക് ഒരു ചിപ്പ് ഉണ്ട് എനിക്ക് പുറത്ത് നിന്ന് വരുന്ന ഒരു ബാഹ്യ ക്ലോക്ക് സിഗ്നൽഉണ്ട് എന്റെ ക്ലോക്ക് സിഗ്നൽ നൽകേണ്ട നിരവധി ടെർമിനൽ പോയിന്റുകളുണ്ട് ഇപ്പോൾ ഇവയെ എന്റെ ലീഫ് നോഡ് അല്ലെങ്കിൽ എന്റെ ക്ലോക്ക് നെറ്റ്വർക്കിന്റെ ലീഫ് പോയിന്റുകൾleaf pointersഎന്ന് വിളിക്കുന്നു അതിനാൽ എന്റെ ക്ലോക്ക് നെറ്റ്വർക്കിൽ ഈ സിഗ്നൽ ഈ ഓരോ ടെർമിനൽ പോയിന്റുകളുമായിബന്ധിപ്പിക്കേണ്ടതുണ്ട് ഈ ഓരോ പോയിന്റുകളുമായി ഞാൻ ഇത് ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇവയെ ഇല നോഡുകൾ അല്ലെങ്കിൽ ലീഫ് പോയിന്റുകൾഎന്ന് വിളിക്കുന്നു അതിനാൽ സ്കീവിനെ ബാധിക്കുന്ന ആദ്യത്തെ ഘടകം നെറ്റ്വർക്കിന്റെ വൈദ്യുത സിംമെറ്ററി വൈദ്യുത സിംമെറ്ററി എന്താണ് അർത്ഥമാക്കുന്നത് ഇലക്ട്രിക്കൽ സിംമെറ്ററി എന്നതിനർത്ഥം ഞാൻ എവിടെ നിന്നെങ്കിലും ക്ലോക്ക് സൃഷ്ടിക്കുന്നു ഞാൻ അത് അയയ്ക്കുകയോ അല്ലെങ്കിൽ നിരവധി ലീഫ് കളിലേക്കോ ടെർമിനൽ പോയിന്റുകളിലേക്കോവിതരണം ചെയ്യുകയാണ് ഇപ്പോൾ എലെക്ട്രിക്കൽ സിംമെറ്ററി എന്നാൽ ഈ ഓരോ പാതയുടെയും വൈദ്യുത കാലതാമസം എന്തായിരിക്കും അവ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും കാരണം ഏത് ട്രാൻസ്മിഷൻ ലൈനിനും പാതയിൽ കപ്പാസിറ്റീവ് പ്രഭാവവുംപ്രതിരോധവും ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഓരോ വയറുകളുടെയും കാലതാമസം സാധ്യമായ അളവിൽ ഏകദേശം തുല്യമായിരിക്കും വിധത്തിൽ നിങ്ങൾ വയറുകൾ സ്ഥാപിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരുതരം സിംമെറ്ററിനേടാൻ കഴിയും നെറ്റ്വർക്കിന്റെ വൈദ്യുത സമമിതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ് അതിനാൽ നെറ്റ്വർക്കിന്റെ എലെക്ട്രിക്കൽ സിംമെറ്ററി ഇവിടെ ആദ്യ പോയിന്റ് അതിനാൽ ഈ ഡയഗ്രാമിൽ ഞാൻ ഇവിടെ കാണിച്ചത് ഈ പാതയുടെ കാലതാമസമാണെങ്കിൽ ഈ പാതയുടെ കാലതാമസവും ഈ പാതയുടെ കാലതാമസവുമാണ് എനിക്ക് വേണ്ടത് ഈ കാലതാമസങ്ങളെല്ലാം ഏകദേശം തുല്യമായിരിക്കണം ഇത് ഞങ്ങൾ പാലിക്കേണ്ട ഒരു നിബന്ധനയാണ് ഈ കാലതാമസം വൈദ്യുത കാലതാമസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞങ്ങൾ റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ഇഫക്റ്റുകൾ സംയോജിപ്പിക്കുന്നു അടുത്ത പോയിന്റുകൾ ക്ലോക്ക് ബഫറുകളുടെയുംപരസ്പരബന്ധങ്ങളുടെയും പ്രക്രിയ വ്യതിയാനമാണ് ശരി ക്ലോക്ക് ബഫർ എന്നത് ഞങ്ങൾ വീണ്ടും മടങ്ങിവന്ന് കൂടുതൽ വിശദമായി ചർച്ചചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനർത്ഥം ഈ ക്ലോക്ക് സിഗ്നലുകൾ ഒരു തരത്തിലുള്ള സിഗ്നലിൽ നിങ്ങൾ കാണുന്നു അവിടെ ആയിരക്കണക്കിന് ലീഫ് നോഡുകൾഉണ്ടാകാം ആയിരക്കണക്കിന് ലീഫ് ക്ലോക്കുകൾഉണ്ടാകാം അല്ലെങ്കിൽ കൂടുതൽ അതിനാൽ ഒരൊറ്റ വരി മറ്റ് ആയിരം പോയിന്റുകളുമായി നേരിട്ട് ബന്ധിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ചിലതരം ബഫർ ആവശ്യമാണ് ഒന്നുകിൽ നിരവധി വ്യത്യസ്ത ക്ലോക്ക് പോയിന്റുകൾക്ക് അനുയോജ്യമായ നിലവിലെ ബഫർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുതരം ബഫറുകളുടെ ശൃംഖല ഉണ്ടായിരിക്കാം അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകാം അതിനാൽ തീർച്ചയായും പരസ്പരബന്ധിത ദൈർഘ്യമുണ്ടാകും ശേഷി ഈ ബഫറുകളുടെ കാലതാമസവും ബാധിക്കുന്നു ഇത് രണ്ടും ഇവിടെ പ്രധാനമാകും അതിനാൽ പ്രക്രിയ വ്യതിയാനം എന്നാൽ ഇവ നിർമ്മിക്കുമ്പോൾ ഒരു ബഫറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും അതിനാൽ കാലതാമസത്തിന്റെ കാര്യത്തിൽ 2 ബഫറുകളും ഒന്നുതന്നെയായിരിക്കില്ല അതിനാൽ ആ skews അവതരിപ്പിക്കപ്പെടാം വിഎൽഎസ്ഐ സർക്യൂട്ടുകളിൽ മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട് ഒരു സർക്യൂട്ടിന്റെ കാലതാമസം ഏതെങ്കിലും തരത്തിലുള്ള സബ് സർക്യൂട്ടുകളുടെ കാലതാമസം ഇത് വൈദ്യുതി വിതരണത്തെ ആശ്രയിച്ചിരിക്കുന്നു ചിപ്പിനുള്ളിൽ വീണ്ടും ഫ്യ്സിക്കൽ എഫക്ട് ഉള്ളതിനാൽ വൈദ്യുതി വിതരണത്തിൽ ഒരു വ്യതിയാനം ഉണ്ടെങ്കിൽ ഫലമായുണ്ടാകുന്ന സർക്യൂട്ടിന്റെ കാലതാമസത്തിൽ ഒരു പ്ലസ് മൈനസ് വ്യതിയാനവും ഉണ്ടാകും അതിനാൽ മൂന്നാമത്തെ പോയിന്റ് ക്ലോക്ക് ബഫർ ചെയ്ത പവർ സപ്ലൈ വ്യതിയാനമാണ്പിർ സപ്ലൈ delay തുടർന്ന് ക്ലോക്ക് ലീഫ് നോഡുകളിലേക്ക് നയിക്കുന്ന എല്ലാ പാതകൾക്കുമുള്ള കപ്ലിംഗ് ശേഷി അവ വൈദ്യുത സമാനമാകണമെന്നില്ല അവയിൽ ചിലതിന് ശേഷി കപ്ലിംഗ് മറ്റ് ലൈനുകളെ ബാധിക്കുന്നു ഞങ്ങൾ ഇതിനകം ഓടുന്നത് മറ്റ് ലൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ആകാം അതിനാൽ ചില വരികൾ കൂടുതൽ കാലതാമസം വരുത്തിയേക്കാം മറ്റൊന്ന് അതിനാൽ ഇത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ് മാത്രമല്ല താപനിലയിലുടനീളമുള്ള താപനില വ്യതിയാനവും ശരി നിങ്ങളുടെ ചിപ്പ് ശരിയായ രീതിയിൽ രൂപകൽപ്പന ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിലിക്കണിന്റെ ചില ഭാഗം മറ്റേതിനേക്കാൾ കൂടുതൽ ചൂടാകാനിടയുണ്ട് ഈ മിക്ക ഉപകരണങ്ങളുടെയും ഭൌതിക പാരാമീറ്ററുകൾ താപനിലയിലെ മാറ്റത്തിനനുസരിച്ച് അവ ഗണ്യമായി വ്യത്യാസപ്പെടുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം അതിനാൽ ചിപ്പിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തേക്കാൾ ചൂടുള്ളതാണെങ്കിൽ ഒരു ഭാഗത്തിന്റെ കാലതാമസം മറ്റ് ഭാഗത്തിന്റെ കാലതാമസത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിനാൽ തന്നെ സ്കൂസ് പരിചയപ്പെടാം അതിനാൽ അത്തരം പല ഘടകങ്ങളുമുണ്ട് അതിനായി ശകലങ്ങൾ സൃഷ്ടിക്കപ്പെടാം അത്തരം വ്യതിയാന ഫലങ്ങൾ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവയിൽ ചിലത് നിയന്ത്രിക്കുന്നത് മിക്കവാറും അസാധ്യമാണ് ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചത് അവസാനത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവ വീണ്ടും അവതരിപ്പിക്കാൻ അനുവദിക്കുക അതിനാൽ ഞങ്ങൾ ചിലപ്പോൾ ക്ലോക്ക് വീതിയെക്കുറിച്ച് സംസാരിക്കും ക്ലോക്ക് വീതി ക്ലോക്ക് പിരീഡിന് തുല്യമല്ല ക്ലോക്ക് വീതി എന്നതിനർത്ഥം ക്ലോക്ക് എത്രനേരം ഉയർന്ന നിലയിലാണെന്നാണ് കാരണം ക്ലോക്ക് വീണ്ടും ഉയരത്തിൽ വളരുന്നു ക്ലോക്ക് വീതി എന്നത് ക്ലോക്ക് ഉയർന്ന തോതിൽ തുടരുന്ന സമയമാണ് ചില ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇതിന് കുറഞ്ഞ സമയ ആവശ്യകത ഉണ്ടായിരിക്കാം ഫ്ലിപ്പ് ഫ്ലോപ്പ് ശരിയായി പ്രവർത്തിക്കുന്നതിന് ക്ലോക്ക് സിഗ്നൽ ഉയർന്നതായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയദൈർഘ്യം നിങ്ങൾ കാണുന്നതുപോലെ നിങ്ങൾക്ക് എഡ്ജ് ട്രിഗർ ചെയ്ത ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടായിരിക്കാം അതായത് 0 മുതൽ 1 വരെ താഴ്ന്നപ്പോഴെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ക്ലോക്ക് ഇൻപുട്ടിൽ എഡ്ജ് വരുന്നുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഇത് ഇൻപുട്ട് മൂല്യം പ്രവർത്തനക്ഷമമാക്കുകയും സംഭരിക്കുകയും ചെയ്യും എന്നാൽ ക്ലോക്കിൽ പ്രയോഗിക്കുന്ന പൾസ് വളരെ ഇടുങ്ങിയതാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ചെയ്യുന്നതിന് സാധാരണയായി ഒരു പിക്കോസെക്കൻഡ് വീതി പൾസ്മതിയാകില്ല ആ പൾസിന് മിനിമം വീതി ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ ഫ്ലിപ്പ് ഫ്ലോപ്പിന് എഡ്ജ് കുറയ്ക്കാനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും കഴിയൂ അതാണ് ക്ലോക്ക് വീതി നിയന്ത്രണം ഈ സജ്ജീകരണ സമയം വരുന്നു ഇത് സാധാരണയായി സൂചിപ്പിക്കുന്നത് ടി സെറ്റപ്പ് അല്ലെങ്കിൽ ടി സുരണ്ടും ഒരേ സജ്ജീകരണ സമയമാണ് ഞാൻ ആവർത്തിക്കുന്നു അതിനാൽ ആവർത്തിക്കുന്നതിൽ ഒരു ദോഷവുമില്ല ക്ലോക്ക് എഡ്ജ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ഇൻപുട്ട് സ്ഥിരതയുള്ളതായിരിക്കേണ്ട സമയമാണിത് അതിനാൽ ഒരു പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്യുന്നതിന് ഇത് ഒരു ഉയർന്ന എഡ്ജ് ആണ് ഒരു നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്യുന്നതിന് ഇത് ഒരു ലോ എഡ്ജ് ആണ് അതിനാൽ എഡ്ജ് വരുന്നതിനുമുമ്പ് എന്റെ ഡാറ്റ ഇൻപുട്ടിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയം എന്താണ് അതാണ് ഹോൾഡ് ടൈം അതാണ് സെറ്റപ്പ് സമയം എന്ന് വിളിക്കപ്പെടുന്നത് ക്ലോക്ക് എഡ്ജ് വരുന്നതിനുമുമ്പ് ഇൻപുട്ട് ഡാറ്റ പ്രയോഗിക്കാൻ എനിക്ക് നൽകേണ്ട സമയമാണ് സജ്ജീകരണ സമയം അതുപോലെ ടി ഹോൾഡ് അല്ലെങ്കിൽ ടി എച്ച്t hold or t hസൂചിപ്പിക്കുന്ന ഹോൾഡ് സമയം വരുന്നു ടി ഹോൾഡ് നിങ്ങൾ ഓർക്കുന്നു ക്ലോക്ക് എഡ്ജ് വന്നതിന് ശേഷം ഇത് പ്രാബല്യത്തിൽ വരും അതിനാൽ എഡ്ജ് അനുസരിച്ച് ക്ലോക്ക് പരിവർത്തനങ്ങൾക്ക് ശേഷം ഉയർന്നതോ താഴ്ന്നതോ ആയ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ഇൻപുട്ട് സ്ഥിരമായിരിക്കണം ഒരു ക്ലോക്ക് എഡ്ജ് ഉള്ളപ്പോൾ എഡ്ജ് വരുന്നതിന് മുമ്പ് എനിക്ക് കുറഞ്ഞത് സമയം ഉണ്ടായിരിക്കണം ഞാൻ എന്റെ ഡാറ്റ സ്ഥിരതയുള്ളതാക്കുകയും എഡ്ജ് വന്നതിന് ശേഷം എന്റെ ഡാറ്റ സ്ഥിരത നിലനിർത്തുകയും വേണം എഡ്ജ് വരുമ്പോഴെല്ലാം കാര്യം സംഭവിച്ചുവെന്ന് എനിക്കറിയാം ഞാൻ ചെയ്തു ഞാൻ എന്റെ ഡാറ്റ ഉടനടി നീക്കംചെയ്യുന്നു അല്ല നിങ്ങൾക്ക് കഴിയും ഹോൾഡ് സമയത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഡാറ്റ നീക്കംചെയ്യാൻ കഴിയൂ ക്ലോക്ക് എഡ്ജ് വരുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് മുമ്പ് ഡാറ്റ പ്രയോഗിക്കണം അതിനാൽ ചുരുക്കത്തിൽ ഉദാഹരണത്തിന് പറയുക ലീഡ് എഡ്ജ് ഫ്ലിപ്പ് ഫ്ലോപ്പിനായിഎന്റെ എഡ്ജ് ഇവിടെ വരുന്നു ഇത് എന്റെ സമയമാണ് അതിനാൽ എന്റെ ഇൻപുട്ട് ഡാറ്റ ഇവിടെ നിന്ന് തയ്യാറായിരിക്കണം കൂടാതെ ഇവിടെ വരെ പ്രയോഗിക്കുന്നത് തുടരുകയും വേണം ഇതാണ് എന്റെ സജ്ജീകരണ സമയം ഇതാണ് എന്റെ ഹോൾഡ് ടൈം ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതും അവസാനത്തെ കാര്യം ഇവയാണ് പ്രചാരണ കാലതാമസം പ്രചാരണ കാലതാമസം എന്നാൽ ക്ലോക്ക് എഡ്ജിൽ നിന്ന് നോക്കുക ഔട്ട്പുട് മാറാൻ എത്ര സമയം ആവശ്യമാണ് അതിനാൽ outputട്ട്പുട്ട് എന്നാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ലോജിക് എന്നിവയുടെ മൊത്തം കാലതാമസം പ്രചരണ കാലതാമസത്തിന്റെ ഔട്ട്പുട് അല്ല അതിനാൽ എനിക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഇൻപുട്ട് വരുന്നു ഇതാണ് എന്റെ ഇൻപുട്ട് ഇവിടെ ഞാൻ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് കാണിക്കുന്നു എന്നാൽ എയിൽ ഒരു പൈപ്പ് ലൈനിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാകും അതിനാൽ രജിസ്റ്റർ ചെയ്യുക അതിനാലാണ് ഞാൻ വെക്റ്റർ നൊട്ടേഷനിൽകാണിക്കുന്നത് ഇൻപുട്ട് ഡാറ്റ വരുന്നു ഈ നൊട്ടേഷൻ അർത്ഥമാക്കുന്നത് ഡാറ്റ മാറുകയാണ് അതിനാൽ എന്റെ പുതിയ ഡാറ്റ വരുന്നു അതിനാൽ എന്റെ പുതിയ ഡാറ്റ ഇൻപുട്ടിലേക്ക് വന്നതിനുശേഷം കുറഞ്ഞ സമയത്തേക്ക് ടി സെറ്റപ്പിനായി ഞാൻ അത് സ്ഥിരതയോടെ നിലനിർത്തണം അതിനുശേഷം മാത്രമേ എന്റെ ക്ലോക്ക് എഡ്ജ് വരൂ എന്റെ ക്ലോക്ക് എഡ്ജ് വന്നതിനുശേഷം മറ്റൊരു സമയം ടി ഹോൾഡിനായി ഞാൻ എന്റെ ഡാറ്റ സ്ഥിരത നിലനിർത്തുന്നത് തുടരണം അതിനാൽ എന്റെ ഡാറ്റ ക്ലോക്കിന് മുമ്പുള്ള ഏറ്റവും കുറഞ്ഞ സമയവും ക്ലോക്കിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സമയവും സ്ഥിരമായി സൂക്ഷിക്കണം ഇതാണ് സജ്ജീകരണത്തിന്റെയും സമയത്തിൻറെയും ആവശ്യകത അതിനാൽ ടി സെറ്റപ്പിനേക്കാൾ വലുതും ടി ഹോൾഡിനെക്കാൾ വലുതും ആയിരിക്കേണ്ട ഒരു സമയത്തേക്ക് എന്റെ ഡാറ്റ സ്ഥിരമായി സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും നിയന്ത്രിത പിൻ എന്നാൽ ശരിയായ സമയത്തിലുള്ള ഇൻപുട്ട് ഡാറ്റയ്ക്കായി അത്തരം സമയ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ഇതുപോലുള്ള ഒരു സാഹചര്യം നോക്കാം ഇത് ഞാൻ അവതരിപ്പിച്ച വ്യത്യസ്ത സമയം കാണിക്കുന്നു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് അതിനാൽ ക്ലോക്ക് സിഗ്നൽവരുന്നു ക്ലോക്ക് പൾസിന്റെ വീതി നിങ്ങളുടെ ഇരട്ടയാണെന്ന് ഞാൻ പറഞ്ഞു ക്ലോക്ക് വരുന്നതിനുമുമ്പ് ഡി ഇൻപുട്ട് ക്ലോക്ക് വരുന്നതിന് മുമ്പും ശേഷവും ടി സജ്ജീകരണ സമയംകുറഞ്ഞത് പ്രയോഗിക്കണം ഏറ്റവും കുറഞ്ഞ ടി ഹോൾഡ് സമയം ഉപ സജ്ജീകരണം ഹോൾഡ്t hold time the sub setup and hold and this t propagation hlഈ ടി പ്രചരണം എച്ച്എൽ എന്നാൽ ക്ലോക്ക് അരികുകൾ വന്നതിനുശേഷം ഈ ക്യൂ ഔട്ട്പുട് എത്ര സമയത്തിന് ശേഷം ലഭ്യമാണ് അതിനാൽ ഡി പ്രയോഗിച്ച ശേഷം ക്ലോക്ക് പോകുന്നു കുറച്ച് ടി പി എച്ച്എൽഇവിടെ ഉണ്ടാവാം കീ ഔട്ട്പുട് ഇവിടെ ക്യു മാറ്റങ്ങൾ ലഭ്യമാണ് അതിനാൽ ഈ ഹോൾഡ് സമയം t p hl ആണ് അതിനാൽ ഞങ്ങൾ ചർച്ച ചെയ്ത സമയങ്ങളാണിത് ക്ലോക്കിന്റെ പോളോ റിലേറ്റീവ് ഓഫ് ദി ക്ലോക്ക് സമയം ക്ലോക്ക് വീതിയും പ്രചാരണവും കാലതാമസം ഉയർന്നതോ താഴ്ന്നതോ താഴ്ന്നതോ വരെ ഇപ്പോൾ കാസ്കേഡിംഗ് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾഎനിക്കറിയാമെങ്കിൽ ധാരാളം ടൈമിംഗ് പ്രശ്നങ്ങളുണ്ട് അവ ഇപ്പോൾ ഓരോന്നായി കാണും അതിനാൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രചാരണ കാലതാമസം ഹോൾഡ് സമയം കവിയുന്നുവെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകാം രണ്ടാം ഘട്ടത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് ഫിസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ചേഞ്ച് ഔട്ട്പുട്ട് മാറുന്നതിന് മുമ്പുള്ള ഇൻപുട്ടാണ് ഇത് ഹോൾഡ് സമയം എന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നത് കാണുക ക്ലോക്ക് എഡ്ജ് ശരിയായി വന്നതിനുശേഷം ഡാറ്റ സ്ഥിരമായി സൂക്ഷിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സമയമാണ് ഹോൾഡ് ടൈം അതിനാൽ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കും ക്ലോക്ക് നൽകപ്പെടുന്നു അതിനാൽ ക്ലോക്കുകൾ വന്നതിനുശേഷം രണ്ടാമത്തേതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന അത്രയും സമയം എന്റെ ഇൻപുട്ട് സ്ഥിരമായി നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ നിങ്ങളുടെ പ്രചാരണ കാലതാമസം എന്തോ ആണ് അതിനാൽ ക്ലോക്ക് വന്നതിനുശേഷം കുറച്ച് കാലതാമസത്തിന് ശേഷം ഈ സ്കീസിന്റെ റോൾ സ്ഥിരത കൈവരിക്കുകയും ആ കാലതാമസം ഹോൾഡ് സമയം കവിയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഏറ്റവും കുറഞ്ഞ സമയം ലഭിക്കില്ല അതിന് ശരിയായി പ്രതികരിക്കാൻ കഴിയും അതിനാൽ സമയക്രമത്തിൽ പിശക് ഉണ്ടാകാം ഇപ്പോൾ ഈ ഡയഗ്രം ശരിയായ സാഹചര്യം കാണിക്കുന്നു അപ്പോൾ എന്തായിരിക്കണം അതേ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് മറ്റൊന്നിനെ പോഷിപ്പിക്കുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ അവസാനത്തെ ഘടികാരം കാണിക്കുന്നു ഇതാണ് ക്ലോക്കിംഗ് ഇവിടെ ഞാൻ ഇത് കാണിക്കുന്നു ഇൻപുട്ട് ഡാറ്റ ഇൻപുട്ട് ഡാറ്റ ക്ലോക്ക് എഡ്ജിന് മുമ്പായി ടി സജ്ജീകരണ സമയം കുറഞ്ഞത് പ്രയോഗിക്കുന്നു ക്ലോക്ക് എഡ്ജ് വന്നതിനുശേഷം ഈ ഇൻപുട്ട് സ്ഥിരമായിരിക്കണം കുറഞ്ഞത് അത്രയേയുള്ളൂ അതെ ഇത് വാസ്തവത്തിൽ സ്ഥിരതയേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കുറഞ്ഞത് ഇത് ഇതായിരിക്കണം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെയും ഈ ലൈനിന്റെയും ഇടയിൽ ചില സർക്യൂട്ട് അല്ലെങ്കിൽ പ്രചരണ കാലതാമസം ഉണ്ടെന്ന് പറയട്ടെ ഇത് t p lh ആണ് ഇത് t p lh ആണെന്ന് കരുതുക അതിനാൽ ഒരു ഇൻപുട്ട് ഇത്രയും കാലം സ്ഥിരതയുള്ളതായിരിക്കണം മാത്രമല്ല ഈ t p lh Q0 ന് ശേഷം മാത്രമേ സംസ്ഥാന അവകാശം മാറുകയുള്ളൂ Q1 ആകുമ്പോൾ വീണ്ടും അടുത്ത ക്ലോക്കിൽ Q0 1 ആകും അടുത്ത ക്ലോക്കിൽ T1 p hl t സജ്ജീകരണം t p hl എന്നിവ കാലതാമസത്തിനുശേഷം Q1 വീണ്ടും 1 ആകും അതിനാൽ ഈ രീതിയിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ശരിയായി പ്രവർത്തിക്കും പ്രവർത്തനത്തിന്റെ ശരിയായ സാഹചര്യമാണിത് ഇനി തുടർച്ചയായ 2 ഘട്ടങ്ങൾക്കിടയിൽ ക്ലോക്ക് സ്കൌ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ചില ഉദാഹരണങ്ങൾ ഒന്നൊന്നായി നോക്കാം ഇവിടെ ഞാൻ ഞങ്ങൾ മനപ്പൂർവ്വം ഇവിടെ ഒരു ഇൻവെർട്ടർ അവതരിപ്പിച്ചു 2 ഡി ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെന്ന് കാണുക ക്ലോക്ക് ഇൻപുട്ടുകൾ C1 C2 ആണ് സി 1 പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ചെയ്തു സി 2 നെഗറ്റീവ് എഡ്ജ് ട്രിഗർചെയ്യുന്നു അതിനാൽ ഇൻവെർട്ടർ കാരണം ഒരേ ക്ലോക്ക് ഇവ രണ്ടും പ്രവർത്തനക്ഷമമാക്കും പക്ഷേ ഈ ഇൻവെർട്ടർ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് C2 അൽപം വൈകും എന്ന് കാണിക്കാനാണ് C1 ന് ശേഷം ക്ലോക്ക് C2 വളച്ചൊടിക്കുന്നു ഇവിടെ നമുക്ക് ഒരു കമ്പ്യൂട്ടേഷൻ സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക ലളിതമായ അല്ലെങ്കിൽ ഗേറ്റ് പറയുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയട്ടെ ഇത് ഞാൻ ഈ ഇൻവെർട്ടറിന്റെ കാലതാമസം അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് അതിനാൽ C1 C2 എന്നിവ ഏതാണ്ട് ഒരേ സമയം C1 ന്റെ 0 മുതൽ 1 വരെയും C2 ന്റെ 1 മുതൽ 0 വരെയും ഒരേസമയം സജീവമാകുമെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ അതിനുശേഷം ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കാലതാമസം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കാലതാമസം കൂടാതെ OR ഗേറ്റിന്റെ കാലതാമസം അല്ലെങ്കിൽ OR ഗേറ്റിന്റെ കാലതാമസം കൂടാതെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിനുള്ള സജ്ജീകരണ സമയം എന്നിവ ഉണ്ടാകും അടുത്ത ക്ലോക്ക് വരുന്നതിനുമുമ്പ് അതിനാൽ അടുത്ത ക്ലോക്ക് വരുന്നതിനുമുമ്പ് D2 ഇത്രയും സമയം സ്ഥിരതയുള്ളതായിരിക്കണം ഈ പ്രചരണ കാലതാമസത്തിനുശേഷം പറയുക അല്ലെങ്കിൽ ഈ D2 ന്റെ ഔട്ട് പുട്ടിന്റെ കാലതാമസം 1 ആകുന്നു കാരണം Q1 1 ന് ശേഷം 1 ആയി OR യുടെ കാലതാമസം OR ന്റെ ഈ ഔട്ട്പുട് 1 ആയിത്തീരുന്നു ഇത് കുറഞ്ഞത് ടി സെറ്റപ്പിനായി സ്ഥിരത നിലനിർത്തണം അത് ശരിയായി പ്രവർത്തിക്കുമെന്ന് മാത്രം അതിനാൽ പൾസ് t w ന്റെ ഈ വീതി പരമാവധി ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്രചരണ കാലതാമസത്തിന് തുല്യമായിരിക്കണം ഈ ലോജിക് സർക്യൂട്ട്പരമാവധി ഈ ഓർഡർ വൈകിപ്പിക്കുന്നു ഞാൻ സമയം പ്ലസ് സജ്ജീകരണം പറയുന്നു ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് എടുക്കുന്നു ക്ലോക്ക് വളച്ചൊടിച്ചില്ലെങ്കിൽ ഇൻവെർട്ടർ കാലതാമസം ഞാൻ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണിത് പക്ഷേ ഇവിടെ ക്ലോക്ക് വളച്ചൊടിക്കും അതിനാൽ സംഭവിക്കുന്നത് ഇതുപോലെയാണ് ക്ലോക്ക് ചരിവ് കാരണം ഇവിടെ കാലതാമസമുണ്ടാകുമെന്ന് കാണുക C2 വൈകും ഇത് ഇവിടെ കാണിച്ചിരിക്കുന്ന നിങ്ങളുടെ skew ആയിരിക്കും അതിനാൽ 0 മുതൽ 1 വരെ പോകുന്ന ക്ലോക്ക് 1 മുതൽ 0 വരെ പോകുന്ന ക്ലോക്ക് 2 എന്നിവയ്ക്ക് കാലതാമസമുണ്ടാകും ഇത് ടി ഇൻവെർട്ടർ ടി ഐവി വിt inverter t iv and v so the total t wഎന്നിവയ്ക്ക് തുല്യമാണ് അതിനാൽ അവിടെ ഉണ്ടായിരുന്ന ആകെ ഇരട്ട ഇത് കാരണം ഇത് യഥാർത്ഥത്തിൽ ലഭിക്കുന്നു കുറയ്ക്കുക ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞ കാലതാമസം ആവശ്യമാണ് പക്ഷേ ഇതിനകം സമയം വൈകിയിരിക്കുന്നു അതിനാൽ ഈ കാലതാമസത്തിനുശേഷം നിങ്ങൾക്ക് എല്ലാം കാലതാമസം നേരിടുന്നതായി കാണാം അതിനാൽ ആദ്യത്തെ 1 ഈ ക്ലോക്ക് വരുമ്പോഴെല്ലാം ഈ 3 കാലതാമസങ്ങൾ ആ ടി എഫ്എഫ് അല്ലെങ്കിൽ ടി സുയ്ക്ക് ശേഷം വരുന്നു എന്നാൽ രണ്ടാമത്തേത് ഈ ഇൻവെർട്ടർ കാലതാമസത്തിന് ശേഷം കമ്പ്യൂട്ടിംഗ് ആരംഭിക്കുന്നു കാരണം ഈ ടി ഇൻ കാലതാമസത്തിന് ശേഷം ഈ ക്ലോക്ക് എഡ്ജ് വരുന്നു അതിനാൽ വാസ്തവത്തിൽ ഈ രണ്ടാമത്തേതിന് പരിമിതമായത് പരമാവധി സ്റ്റെപ്പും പ്ലസ് മൈനസ് ടി ഇൻവെർട്ടറും ആയിരിക്കും 2 രംഗങ്ങളുണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നു ഇവിടെ ഇത് ഒരു OR ഗേറ്റ് ആണ് ഇത് തുല്യമായി നിൽക്കുന്ന സമയമാണ് ഇത് പരിമിതപ്പെടുത്തുന്ന കേസാണ് അതിനാൽ ക്ലോക്ക് വളച്ചൊടിക്കുമ്പോൾ നിങ്ങൾ ഈ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള സർക്യൂട്ടിന് ഇതാണ് വ്യവസ്ഥകൾ അടുത്ത കേസ് റിവേഴ്സ് C1 വൈകിയാൽ അതിനാൽ നമുക്ക് ഇവിടെ ഒരു ഇൻവെർട്ടർ തിരുകാം കൂടാതെ സി 1 ൽ പോസിറ്റീവ് എഡ്ജും സി 2 ൽ നെഗറ്റീവ് എഡ്ജും വരുമ്പോഴെല്ലാം രണ്ടും ഒരുമിച്ച് പ്രവർത്തനക്ഷമമാകുമെന്ന് കരുതുക അതേ വിധത്തിൽ ക്ലോക്ക് ചരിഞ്ഞില്ലെങ്കിൽ ഇത് ആദ്യ സാഹചര്യമാണ് ഈ 3 ൽ ചിലതിനേക്കാൾ വലുതായിരിക്കും അതേ രീതിയിൽ എന്നാൽ ക്ലോക്ക് ഇതുപോലെ വളഞ്ഞാൽ മുമ്പത്തെ കാര്യമായിരുന്നു ഘടികാരം വളഞ്ഞതല്ല പക്ഷേ കാരണം C1 കാലതാമസം നേരിടുന്നതായി നിങ്ങൾ കാണുന്ന ക്ലോക്ക് സ്കീയുടെ C1 കാലതാമസം നേരിടുന്നു ഇപ്പോൾ എന്ത് സംഭവിക്കും ഈ D2 അതിനാൽ വരുന്നതെന്തും C2 എഡ്ജ് ഇവിടെ വരുന്നതെന്തും മൊത്തം ടി സെറ്റപ്പ് സമയം ലഭിക്കുന്നില്ല ഇതിന് കുറവ് D2 ലഭിക്കുന്നത് ഇവിടെ മാത്രം സ്ഥിരത കൈവരിക്കുന്നു ടി സെറ്റപ്പിനേക്കാൾ കുറവുള്ള സമയത്തേക്ക് ഇത് സ്ഥിരത കൈവരിക്കുന്നു അതിനാൽ ഇവിടെ ഒരു പിശക് സാഹചര്യമുണ്ട് അതിനാൽ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത് പരിമിതപ്പെടുത്തുന്ന കേസ് ഞങ്ങളുടെ ഇൻവെർട്ടർ ഇത്രയും വൈകും അപ്പോൾ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥ എന്താണ് ഇത് ഇപ്പോൾ കൂട്ടിച്ചേർക്കും കാരണം ഇത് ആദ്യം കമ്പ്യൂട്ട് ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ ഇത് കണക്കുകൂട്ടുന്നു ഇത് വൈകുന്നത് കാരണം എല്ലാം വൈകും അതിനാൽ ഇത് പൂർത്തിയാകുന്നതുവരെ നിങ്ങൾക്ക് ഇത് ആരംഭിക്കാൻ കഴിയില്ല അതിനാൽ ഈ ഇൻവെർട്ടർ കാലതാമസം ഇവിടെ ചേർക്കും inverted delay gets minus negative subtractedഅതിനാൽ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി മോശം അവസ്ഥയായ ആദ്യത്തേതിന്റെ ക്ലോക്ക് നിങ്ങൾ കാലതാമസം വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ കാലതാമസ ആവശ്യകത വർദ്ധിക്കുന്നു പക്ഷേ രണ്ടാമത്തേതിന്റെ ക്ലോക്ക് കാലതാമസം വരുത്തുകയാണെങ്കിൽ വിപരീത കാലതാമസം മൈനസ് നെഗറ്റീവ് കുറയ്ക്കുന്നു അതിനാൽ ആ സാഹചര്യത്തിൽ ക്ലോക്കിന് ഒരു അധിക കാലതാമസം നിങ്ങൾ നൽകേണ്ടതില്ല അതിനാൽ ക്ലോക്ക് സൈക്കിൾ സമയം യഥാർത്ഥമായി കണക്കാക്കാനും അതിലൊന്ന് മെച്ചപ്പെടുത്താനോ ഒപ്റ്റിമൈസ് ചെയ്യാനോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില കാലതാമസ കണക്കുകൂട്ടലുകൾ ഇവയാണ് അതിനാൽ ഇവ ചില ലളിതമായ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ സംഗ്രഹത്തിലേക്ക് നിങ്ങൾ കണ്ടതെന്തും പരമാവധി ക്ലോക്ക് ഫ്രീക്വൻസി കണക്കുകൂട്ടൽ അതിനാൽ പൊതുവേ ഇത് ഇതുപോലെ നോക്കും അതിനാൽ എനിക്ക് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ഇതിനിടയിൽ ഒരു ലോജിക് നെറ്റ്വർക്ക് ഉണ്ട് പൊതുവായി മറ്റൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് ക്ലോക്ക് C1 C2 എന്നിവയാണ് ആദ്യത്തെ രംഗം C1 ന് ശേഷം C2 വളച്ചൊടിക്കുന്നു എന്നാണ് അതായത് C2 വൈകുന്നു അതിനാൽ നിങ്ങൾ കാണിക്കുന്ന ആദ്യ കേസ് അതിനാൽ നിങ്ങളുടെ ക്ലോക്ക് വീതി സമയ കാലയളവ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ പ്രചാരണ കാലതാമസത്തിന് തുല്യമായിരിക്കണം ലോജിക് നെറ്റ്വർക്ക് സജ്ജീകരണ സമയത്തിന്റെ പരമാവധി കാലതാമസം ഈ കാലതാമസം ഇൻവെർട്ടർ കാലതാമസത്തിന് ശേഷം C2 വരുന്നുവെന്ന് കരുതുക അതിനാൽ ഞാൻ ടി ഇൻവോൾt invവിളിക്കുന്നു പക്ഷേ കാണുകയാണെങ്കിൽ പക്ഷേ അത് മറ്റ് റൌണ്ട് ണ്ടാണെങ്കിൽ C1 വൈകുന്നുവെങ്കിൽ C2 വരുന്നു അതിനാൽ ഇവിടെ സി 1 ൽ ഒരു ഇൻവെർട്ടർ ഉണ്ട് തുടർന്ന് നിങ്ങളുടെ ടി ഡബ്ല്യു വർദ്ധിക്കുന്നു അതായത് നിങ്ങളുടെ ആവൃത്തി കുറയുന്നു അതിനാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില മാനദണ്ഡങ്ങൾ ഇവയാണ് ക്ലോക്ക് ആവൃത്തി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പിന്തുടരാനാകും ഇപ്പോൾ മറ്റൊരു ലളിതമായ ചെറിയ ഉദാഹരണമുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നേരിട്ടുള്ള കണക്ഷൻ ഉള്ളതുപോലെ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് C1 നും C2 നും ഇടയിൽ എത്രമാത്രം ചരിവ് സഹിക്കാനാകുമെന്ന് ഇത് പറയുന്നു C2 കേസ് 1 വൈകിയെന്ന് കരുതുക C2 അതിനുശേഷം വരുന്നു അതിനാൽ ടി സ്കെയുടെ കാലതാമസത്തിന് ശേഷം സി 2 വരുന്നത് പോലെയാണ് ഇത് അതിനാൽ നിങ്ങൾക്ക് സജ്ജീകരണ സമയ ആവശ്യകത സി 1 എഡ്ജ് മിനിമം സജ്ജീകരണ സമയം അതിനുശേഷം സമയം പിടിക്കുക ഡി 2 ഈ വരിയുടെ പ്രചാരണ കാലതാമസത്തിൽ എത്തുന്നതിനുമുമ്പ് ഇത് നിങ്ങളുടെ പ്രചാരണ കാലതാമസമാണെന്ന് കരുതുക അതിനാൽ എന്താണ് സംഭവിക്കുന്നത് ഈ കാലതാമസത്തിനുശേഷം ഏറ്റവും മോശം അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് ഇത് കാലതാമസമില്ലാതെയായിരുന്നു പക്ഷേ കാലതാമസം നേരിടുകയാണെങ്കിൽ എല്ലാം വലത്തേക്ക് മാറുന്നു സി 2 വൈകുകയാണ് കൂടുതൽ കാലതാമസം ഇത് അൽപ്പം വൈകി കാലതാമസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഈ അഗ്രം ഇവിടെ ഈ അരികിൽ സ്പർശിക്കും ഇതൊരു പരിമിത കേസാണ് ഇതിനപ്പുറം ഒരു പിശക് ഉണ്ടാകും ഇത് കൂടുതൽ കുറച്ചാൽ ഹോൾഡ് സമയം ആവശ്യകത ലംഘിക്കപ്പെടും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള അവസ്ഥ ലഭിക്കുന്നു ടി എഫ് എഫ് ടി എച്ച് പ്ലസ് ടി സ്കീ ടോട്ടലിനേക്കാൾ വലുതായിരിക്കണം നിങ്ങളുടെ പ്രചാരണ കാലതാമസം ഇതായിരിക്കണം ഇതിനേക്കാൾ കുറവായിരിക്കരുത് ഈ 2 ൽ തീർച്ചയായും ടി സ്കീ പ്രചാരണ കാലതാമസമായിരിക്കണം മൈനസ് ടി എച്ച് ആ ചരിവിനേക്കാൾ കുറവായിരിക്കണം ഇത് 2 ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാനാകും നിങ്ങളുടെ ശരിയായ പ്രവർത്തനം തടസ്സപ്പെടും മറ്റ് സാഹചര്യങ്ങളിൽ C1 വൈകിയാൽ നിങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാനമായി ഒരു കണക്കുകൂട്ടൽ നടത്താം അതിനാൽ സി 1 കാലതാമസം നേരിടുന്ന സാഹചര്യങ്ങളാണിവ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കിടയിലുള്ള അധിക കാലതാമസം അവസാനത്തെ ഉദാഹരണം സ്കൂ കണക്കുകൂട്ടലിനെഎങ്ങനെ ബാധിക്കുന്നു അതിനിടയിൽ ഒരു മൾട്ടിപ്ലക്സർ ഉണ്ടെന്ന് കരുതുക അതുകൊണ്ട് ഇതുപോലുള്ള ഒരു സാഹചര്യം നമുക്ക് പരിഗണിക്കാം സ്കൂ C2വൈകിയിരിക്കുന്നു skew ആണ്കുറഞ്ഞ പ്രജനന കാലതാമസം മൈനസ് ഹോൾഡ് സമയം ആകെ t ff മൈനസ് t ഇത് t sk ആണ് നിങ്ങൾ മൾട്ടിപ്ലക്സറിന്റെ കാലതാമസം കൂടി ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ D2 അതിനു ശേഷം t ff plus t പരമാവധി D2 അതിനുശേഷം മാറും രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് സി 2 ന്റെ ഹോൾഡ് സമയമായിരിക്കും C മുതൽ h വരെ മിനിമം വന്നതിനുശേഷം ഈ സമയം ഡാറ്റ സ്ഥിരതയുള്ളതായിരിക്കണം അതിനാൽ നിങ്ങളുടെ രണ്ടാമത്തെ അവസ്ഥ മൾട്ടിപ്ലക്സർ മൈനസ് ടി എച്ച് ടി എച്ച് എന്നിവ കുറച്ചുകൊണ്ട് നിരവധി തവണ മിനിമം ടി എഫ്എഫ് പ്ലസ് ആയിരിക്കും അതിനാൽ ഇതുപോലുള്ള ഒരു സർക്യൂട്ടിന്റെസംഗ്രഹങ്ങളിൽ നമ്മൾ ഇതിനകം സംസാരിച്ച 2 ചോദ്യങ്ങൾ ഇവയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ 2 സമവാക്യങ്ങൾ ഉപയോഗിക്കാം ഒന്ന് ഈ 2 സംതൃപ്തരാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ഇല്ലെങ്കിൽ അതിനർത്ഥം അവിടെ ചില സമയ ലംഘനം ഉണ്ടെന്നാണ് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിലേക്ക് വരുന്നു അതിനാൽ അടുത്ത പ്രഭാഷണത്തിലും ക്ലോക്കിംഗിനെക്കുറിച്ചുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും